ഇന്ന് നമുക്ക് എസ്എൽഎ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു SLA ഉണ്ടായിരിക്കണം നിർഭാഗ്യവശാൽ ഒരു സ്റ്റാൻഡേർഡ് വികസിക്കുന്നുവെന്ന് ഞാൻ പറയണം ഒരു പ്രധാന കാരണം വ്യത്യസ്ത തരം സർവീസ് ഉണ്ടായിരിക്കാം വ്യത്യസ്ത ഉപഭോക്താക്കളാണ് വ്യത്യസ്ത ദാതാക്കളിൽ നിന്ന് വ്യത്യസ്ത സ്കെയിലിൽ സർവീസ് ആവശ്യപ്പെടുന്നത് ഈ എസ്എൽഎ നിയന്ത്രിക്കുന്ന വിശാലമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഒരിക്കലും കുറവല്ല നിങ്ങൾ ഏതെങ്കിലും ക്ലൌഡ് സർവീസ് ദാതാവിൽ നിന്ന് ഒരു സർവീസ് എടുക്കുമ്പോഴെല്ലാം മൈക്രോസിരിസിയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൌഡ് അല്ലെങ്കിൽ ഐബിഎം ക്ലൌഡ് അല്ലെങ്കിൽ ആമസോൺ ക്ലൌഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൌഡ് ചില കരാറുകളിൽ നിങ്ങൾ സമ്മതിക്കേണ്ടതുണ്ട് അതിനാൽ ഈ കരാറുകൾ എങ്ങനെയാണെന്നതിന്റെ അർത്ഥം ഈ കരാറുകൾ എങ്ങനെ രൂപീകരിക്കാം അല്ലെങ്കിൽ അതിനുള്ള അടിസ്ഥാനപരമായ അടിസ്ഥാന സൌകര്യങ്ങൾ എന്തായിരിക്കുമെന്ന് നമ്മളുടെ SLA സംഭാഷണത്തിൽ നമ്മൾ കണ്ടു നമ്മൾ SLO KPI എന്നിവയെക്കുറിച്ചും മറ്റും സംസാരിച്ചു ഇത് ഈ SLA കെട്ടിപ്പടുക്കാൻ നമ്മളെ അനുവദിക്കുന്നു ചില സാഹചര്യങ്ങളിൽ ഇത് ചില മെട്രിക്കുകളാണ് ഇത് നയപരമായി നയിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ ഡാറ്റ എവിടെയാണ് സൂക്ഷിക്കുന്നത് ബാക്കപ്പ് പോളിസി എന്തായിരിക്കണം എന്നതും മറ്റും കൂടുതൽ നയങ്ങൾ നയിക്കപ്പെടുന്നിടത്ത് ചില കരാറുകൾ പാരാമീറ്റർ അടിസ്ഥാനമാക്കിയുള്ളതാണ് സീ അപ് ടൈം ഉപയോഗമോ പോലുള്ളവ മെട്രിക്സ് ആയ ചില കാര്യങ്ങൾ ഒന്നോ രണ്ടോ പ്രശ്നം നോക്കാൻ നമ്മൾ ശ്രമിക്കും അതിനുമുമ്പ് വ്യത്യസ്ത തരം എസ്എൽഎയിൽ വ്യത്യസ്ത പാരാമീറ്ററുകൾ എങ്ങനെ പരിഗണിക്കുമെന്ന് നമ്മൾ കാണും വ്യത്യസ്ത തരത്തിലുള്ള കൊമേർഷ്യൽ ലൈഫിൽ എന്നിവയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എടുത്തിട്ടുണ്ട് അവ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നുവെന്നത് ഒരു തരത്തിൽ കാര്യങ്ങൾ ആണെന്ന് പറയുക എന്നതാണ് ആശയം ഈ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഈ സ്ലൈഡ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ദാതാവും ഉപഭോക്താവും തമ്മിലുള്ള കരാർ ഔദ്യോഗിക കരാറാണ് ദാതാവിനെക്കുറിച്ചുള്ള ഉപഭോക്തൃ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ചിലപ്പോൾ ദാതാവിന് ഈ ഉപഭോക്താവിനെ എങ്ങനെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നത് പ്രകടനത്തിനും സർവീസ് ലഭ്യതയ്ക്കും ഒരു ഔദ്യോഗിക അടിസ്ഥാനം നിർവചിക്കുന്നതിനുള്ള ഉദ്ദേശ്യമാണ് ഡെലിവറി സർവീസ് എസ്എൽഎയ്ക്കുമുള്ള അവസ്ഥയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി നമ്മൾ സംസാരിച്ചതുപോലെ സെലക്ഷൻ ക്ലൌഡ് ദാതാവിനുള്ള SLO അടിസ്ഥാനം ഈ രീതിയിൽ ഞാൻ ഒരു സ്ലൈഡ് സൂക്ഷിച്ചു അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകും ഈ രണ്ട് പ്രശ്നങ്ങളും നമ്മൾ ചർച്ചചെയ്യും തുടർന്ന് ഈ കൊമേർഷ്യൽ ക്ലൌഡുകൾ എങ്ങനെ കാണുന്നു അവ എങ്ങനെ നിർവചിക്കുന്നു എന്നതിന്റെ ചില വശങ്ങൾ നോക്കാൻ ശ്രമിക്കും അതിനാൽ ഒരു ക്ലൌഡ് ഗ്യാരണ്ടി സർവീസ് ലഭ്യത 99 ശതമാനം സമയബന്ധിതമായി ലഭ്യമാക്കുമെന്ന് കരുതുക മൂന്നാം കക്ഷി ആപ്ലിക്കേഷൻ ഒരു മാസാവസാനം ഒരു ദിവസം 12 മണിക്കൂർ ക്ലൌഡിൽ പ്രവർത്തിക്കുന്നു പലപ്പോഴും 0 75 മണിക്കൂർ തകരാറുണ്ടെന്ന് കണ്ടെത്തി പ്രാരംഭ ലഭ്യത ഉറപ്പ് ദാതാവ് ലംഘിച്ചിട്ടുണ്ടോയെന്ന് കണ്ടെത്തുക അതിനാൽ വളരെ വ്യക്തമാണ് ഇത് എസ്എൽഎയിൽ 99 ശതമാനം സമയമായി നൽകുന്നു ഒരു മൂന്നാം കക്ഷി പറയുന്നു ക്ലൌഡ് 12 മണിക്കൂർ വീതം ഒരു ദിവസം പ്രവർത്തിക്കാൻ അങ്ങനെ ഒരു മാസം ഇത് 10 75 ആണ് കൂടാതെ ദാതാവ് പ്രാഥമിക ലഭ്യത ഉറപ്പ് ലംഘിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു പ്രശ്നമാണ് ഒരു മാസത്തിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാനുള്ള ആകെ സമയം 12 ഗുണം 33 360 മണിക്കൂർ ശരിയാണ് ഇപ്പോൾ ഔട്ടേജ് സമയം 99 ശതമാനമായിരുന്നു അന്തിമ സർവീസ് ഗ്യാരൻറിയായി അതിനാൽ അന്തിമ സർവീസ് ലഭ്യത പ്രാരംഭ സർവീസ് ഗ്യാരണ്ടിയേക്കാൾ കുറവാണ് അതിനാൽ സർവീസ് ക്ലൌഡ് സർവീസ് ദാതാവ് സിഎസ്പി നമ്മൾ SLA ലംഘിച്ചുവെന്ന് പറഞ്ഞാൽ എന്ത് നിഗമനം ചെയ്യാം ഇത് വളരെ നേരായ ലളിതമായ ഗണിതമാണ് എന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അളക്കാൻ കഴിയുമെങ്കിൽ ലഭ്യതയെ ആശ്രയിച്ച് എനിക്ക് കഴിയും അടിസ്ഥാനപരമായി ഈ എസ്എൽഎ ലംഘനങ്ങൾ കണക്കാക്കാം എല്ലാ ഘടകങ്ങളും പരിശോധിക്കേണ്ട ഒരു കൂട്ടം എസ്എൽഎ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ലളിതമായ കണക്കുകൂട്ടൽ നടത്താം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ സങ്കീർണ്ണമായിരിക്കാം എന്തെങ്കിലും കണ്ടെത്തുന്നതിന് നിങ്ങൾ ചില സ്ഥിതിവിവര വിശകലനം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് SLA ലംഘനം അല്ലെങ്കിൽ SLA ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശരിയല്ല ഇത് എസ്എൽഎ തൃപ്തികരമാണോ അല്ലയോ എന്ന് നമുക്ക് കണക്കാക്കാം ഇത് വളരെ നേരെയാണ് പക്ഷേ വാസ്തവത്തിൽ അത് നേരെയല്ലായിരിക്കാം വ്യത്യസ്ത സമയങ്ങളിൽ എനിക്ക് വ്യത്യസ്ത തരം ലഭ്യത നേടാൻ കഴിയുന്നത് അതിനായി എനിക്ക് വാണിജ്യപരമായി പരിഗണിച്ചാൽ പറയാം ഉദാഹരണത്തിന് ഒരു ബാങ്കിംഗ് ഓർഗനൈസേഷൻ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ ഞാൻ പറയുന്നതുപോലുള്ള ഏറ്റവും ഉയർന്ന സമയങ്ങളിൽ എനിക്ക് 99 9 ശതമാനം ലഭ്യത ആവശ്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും അതേസമയംരാവിലെ 7 മുതൽ വൈകിട്ട് 5 മണി വരെ ഈ മണിക്കൂറുകളിൽ എനിക്ക് 99 ശതമാനം ഉണ്ടായിരിക്കാമെന്ന് ഒരു ഓഫ് പീക്ക് മണിക്കൂറിൽ എനിക്ക് പറയാൻ കഴിയും അതേസമയം വൈകിട്ട് 7 മണി മുതൽ അടുത്ത ദിവസം വരെ രാവിലെ 7 മണി വരെ എനിക്ക് 97 ശതമാനം എന്ന് പറയാൻ കഴിയും രാവിലെ 08 മുതൽ 09 മണി വരെ ഇത് വീണ്ടും 99 ശതമാനം ആണെന്ന് എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഈ ലഭ്യത ആവശ്യകതയെക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സ് ആവശ്യകതകളെ അടിസ്ഥാനമാക്കി കാലക്രമേണയും വ്യത്യാസപ്പെടുന്നു നിങ്ങളുടെ ആവശ്യകതയെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാകും എനിക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ ലാബുകൾ 2 മുതൽ 5 വരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ രാവിലെ 2 മുതൽ 6 വരെയും രാവിലെ 8 മുതൽ 12 വരെ പറയുക ആ ലാബ് സമയങ്ങളിൽ എനിക്ക് ലഭ്യതയുടെ ഉയർന്ന ശതമാനം ആവശ്യമാണ് എന്നിരുന്നാലും ഓഫ് പീക്ക് സമയങ്ങളിലോ സായാഹ്ന സമയങ്ങളിലോ എനിക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടിവരാം കാരണം സർവീസ് നിങ്ങൾ കൂടുതൽ പണം ഉറപ്പ് നൽകുന്നു അതിനാൽ അത് ആവശ്യമാണ് കാണാൻ കൂടുതൽ സങ്കീർണ്ണമായ കണക്കുകൂട്ടലുകൾ ഉണ്ടാകാം ശരിയാണ് സമാനമായി നമുക്ക് മറ്റൊരു പ്രശ്നം നോക്കാം ഇത് മുമ്പത്തെ പ്രശ്നത്തിന്റെ അല്പം വിപുലീകരണമാണ് ഒരു കമ്പനി x ഒരു സർവീസ് ദാതാവ് x ക്ഷമിക്കണം ഒരു കമ്പനി x ഒരു ദാതാവ്ൽ നിന്ന് ക്ലൌഡ് സർവീസ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കുന്നു അതിനാൽ ഐഐടി ഖരഗ്പൂർ ഒരു ബാഹ്യ ഒന്നിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ക്ലൌഡ് സർവീസ് ഒരിക്കൽ കൂടി ശരിയാക്കണമെന്ന് പറയുന്നത് പോലുള്ള ഒരു ദാതാവിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി x ഉണ്ട് ബിസിനസ്സ് ആരംഭിക്കുന്നതിന് 2 കക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ സർവീസ് ലെവൽ കരാർ ഉറപ്പുനൽകുന്നു അതിനുമുമ്പ് സർവീസ് ലെവൽ ഗ്യാരണ്ടികൾ ഉപഭോക്താവിന് നൽകും ദാതാവ് വാഗ്ദാനം ചെയ്യുന്നതിൽ ഗ്യാരണ്ടീഡ് ലെവലിൽ സർവീസ് നൽകാൻ പരാജയപ്പെട്ടാൽ ഉപഭോക്താവ് നിരക്ക് ഈടാക്കുന്നുവെങ്കിൽ പിഴ ഈടാക്കാനുള്ള അവകാശം നൽകേണ്ടിവരും പിഴ ഈടാക്കുന്നത് മണി ഡിറ്റൻറ്സ് നൽകുന്നതുപോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ആയിരിക്കാം പിഴ ഈ സാഹചര്യത്തിൽ ലഭ്യതയ്ക്ക് പ്രതിമാസ കണക്റ്റിവിറ്റി അപ് ടൈം സർവീസ് ലെവൽ 10 ശതമാനം ശരിയാണ് അതേസമയം അതിൽ 99 ശതമാനത്തിൽ താഴെയാണെങ്കിൽ സർവീസ് ക്രെഡിറ്റ് 25 ശതമാനം ശരിയായിരിക്കണം എന്നിരുന്നാലും സർവീസ്കാലയളവിൽ ക്ലൌഡ് സെർവർ 5 ഔട്ടേജുകളെ ശരിയായി പിന്തുണയ്ക്കുന്നുവെന്ന് കണ്ടെത്തി ഇനിപ്പറയുന്ന കാലയളവുകളിൽ ഒന്ന് 5 മണിക്കൂർ 30 മിനിറ്റ് ഒന്ന് 1 മണിക്കൂർ 30 മിനിറ്റ് ഒന്ന് 15 മിനിറ്റ് 2 മണിക്കൂർ 25 മിനിറ്റ് വീതം വ്യത്യസ്ത ദിവസങ്ങളിൽ അതിനാൽ അവകാശം ലംഘിക്കുന്നിടത്ത് സാധാരണ സർവീസ് ഉറപ്പുനൽകുന്നു എസ്എൽഎ ചർച്ചകൾ മാനിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ ക്ലൌഡ് സർവീസ് ശരിയായി വാങ്ങുന്നതിന് നൽകേണ്ട ഫലപ്രദമായ ചെലവ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഈ ക്ലൌഡ് സർവീസ് ഉപഭോക്താവിന് എത്രത്തോളം ഫലപ്രദമായി പണം നൽകേണ്ടതുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് നല്ലതാണ് അതിനാൽ വേഗത്തിൽ ആവർത്തിക്കാൻ ചില ഗ്യാരണ്ടികളുണ്ട് ലഭ്യത 99 95 ശതമാനം സർവീസ് കാലയളവ് 30 ദിവസം പരമാവധി കാര്യങ്ങൾ 12 മണിക്കൂർ 50 ഡോളർ കൂടാതെ 99 95 ശതമാനത്തിൽ കുറയാത്ത സർവീസ് നൽകാത്തതിന് ചില പിഴകളുണ്ട് എന്നാൽ 99 ശതമാനത്തിന് തുല്യമായത് 10 ശതമാനമാണ് 99 ശതമാനത്തിൽ താഴെ മുതൽ 25 ശതമാനം വരെ 5 ഔട്ടേജുകൾ 5 മണിക്കൂർ 30 മിനിറ്റ് 1 മണിക്കൂർ 30 മിനിറ്റ് 15 മിനിറ്റ് 2 മണിക്കൂർ 25 മിനിറ്റ് ക്ലൌഡ് സർവീസ് വാങ്ങുന്നതിന് നൽകേണ്ട ഫലപ്രദമായ ചെലവ് കണ്ടെത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇത് നമ്മൾ വീണ്ടും പ്രവർത്തിക്കേണ്ടത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമല്ല പക്ഷേ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയം ഇത് നൽകുന്നു സർവീസ് കാലയളവ് 30 ദിവസം ശരിയാണ് 12 മണിക്കൂർ അതിനാൽ മൊത്തത്തിൽ നമ്മൾക്ക് ആകെ വളരെയധികം മണിക്കൂറുകൾ ഉണ്ട് അല്ലെങ്കിൽ 360 മണിക്കൂർ നമ്മൾ പ്രതിദിനം 50 യുഎസ് ഡോളർ വില മൊത്തം ചെലവ് അതിനാൽ സർവീസ് നെഗോഷിയേഷൻ സമയത്ത് ഇത് ഡോളർ 50 ക്രോസ് 30 അല്ലെങ്കിൽ ഈ പിഴയാണ് ഈ വസ്തുതകളാണ് നമ്മൾ പ്രതിദിനം 30 ദിവസത്തെ സർവീസ് ദൈർഘ്യം നമ്മൾ ഉപയോഗിക്കുന്ന 12 മണിക്കൂർ മൊത്തം സർവീസ് സമയം പ്രതീക്ഷിക്കുന്നു ഈ 50 ഡോളർ പ്രതിദിനം 50 എന്നത് സർവീസ് നെഗോഷിയേഷൻ സമയവും ചെലവും ആണ് അതായത് 15 മുതൽ 30 വരെ 50 1500 ഡോളർ അതാണ് കാര്യം ഇപ്പോൾ മൊത്തം സർവീസിന്റെ ആകെ സർവീസ് 5 മണിക്കൂർ പ്ലസ് 30 മിനിറ്റ് പ്ലസ് 1 മണിക്കൂർ 30 മിനിറ്റ് പ്ലസ് 15 മിനിറ്റ് കൂടാതെ 2 മണിക്കൂർ 25 മിനിറ്റ് ശരിയാണ് നിങ്ങൾ ചേർത്താൽ 9 മണിക്കൂർ 25 മിനിറ്റാണ് ഇതാണ് ആകെ ഔട്ടേജ് സമയം അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങളുടെ ആകെ ഡൌൺടൈം അതിനാൽ സർവീസ് ലഭ്യത 1 മൈനസിന് തുല്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഇത് 1 മൈനസ് ഡൌൺടൈം അപ്ടൈം ഉപയോഗിച്ച് 1 മൈനസ് 9 മണിക്കൂർ 25 മിനിറ്റ് 360 മണിക്കൂർ 100 ഇത്രയും ശതമാനം അതിനാൽ ഈ പിഴ ഇത് ആകെ പ്രതീക്ഷിച്ച സമയമായിരുന്നു ഇതാണ് ഔട്ടേജ് അല്ലെങ്കിൽ ഡൌൺടൈം അതിനാൽ 1 മൈനസ് ഡൌൺടൈം അങ്ങനെ പോകുന്നു 97 385 ശതമാനം നമ്മുടെ പക്കലുണ്ട് അതിനാൽ ഇത് നല്ലതാണ് സർവീസ് ലഭ്യത 97 385 ശതമാനമായി നമ്മൾ കണക്കാക്കുന്നു ഈ ഡാറ്റ ലഭ്യമാണ് നമ്മൾ കണക്കാക്കിയ പ്രതിമാസ സമയ ശതമാനം 97 385 ആണ് ഇത് 99 ശതമാനത്തിൽ താഴെയാണ് 5 ശതമാനം മാത്രമല്ല 99 ശതമാനവും സർവീസ് ക്രെഡിറ്റ് ലഭ്യമാണ് അതിനാലാണ് ആ സർവീസ് ചർച്ചകളിലോ എസ്എൽഎ കാര്യങ്ങളിലോ നമ്മൾ ചെയ്യുന്നതെന്തും മൊത്തം ചെലവിന്റെ 25 ശതമാനം നമ്മൾ 1500 കണക്കാക്കിയതുപോലെ ഇത് മൊത്തം ചെലവാണ് ഇത് ഡോളർ 375 ആണ് ഡോളർ 1500 മൈനസ് ഡോളർ 375 ഡോളർ 1125 ന് തുല്യമായ സർവീസ് വാങ്ങുന്നതിലൂടെ നൽകേണ്ട എഫക്റ്റീവ് കോസ്റ്റ് ആണ് ഔട്ടേജ് അടിസ്ഥാനമാക്കി നമ്മൾ അത് കാണുന്നു നിങ്ങൾ പ്രശ്നം 2 നോക്കുകയാണെങ്കിൽ അത് ആദ്യ പ്രശ്നത്തിന്റെ ചെറിയ വിപുലീകരണമാണ് എന്നാൽ ഇത് വാസ്തവത്തിൽ കാര്യങ്ങൾ ശരിയായി സംഭവിക്കുന്നു ഈ കാര്യങ്ങൾ ലോഗ് ആയിരിക്കാം നെറ്റ്വർക്കിലെ ലഭ്യത മന്ദഗതിയിലുള്ളതും കാര്യങ്ങളുടെ തരവും ആയിരിക്കാം ഇത് മറ്റ് ചില വശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അത് എല്ലായ്പ്പോഴും നേരെയല്ല മറിച്ച് സങ്കീർണ്ണമായ മറ്റ് പരിഗണനകളുണ്ട് ഈ 2 പ്രശ്നത്തിൽ നമ്മൾ ശ്രമിച്ചത് അതിനാൽ ഒരു എസ്എൽഎ ഗ്യാരൻറി എങ്ങനെ കണക്കാക്കാം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാർഗ്ഗത്തിലേക്ക് നോക്കാമെന്ന് കാണിച്ച് അത് എങ്ങനെ കണക്കാക്കാമെന്ന് കാണിക്കുകയും എസ്എൽഎയുടെ ലംഘനം ശരിയാണോ എന്ന് കാണുകയും ചെയ്യുക അതിനാൽ ഇത് നിങ്ങൾക്ക് വിശാലമായ ആശയം അല്ലെങ്കിൽ ഒരു കാര്യം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇപ്പോൾ എന്താണ് അടിസ്ഥാന ബേസ് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണക്കാക്കിയത് അപ് ടൈം ആണ് അതിനാൽ പ്രധാനമായും വാണിജ്യ ക്ളൌഡ് പരിഗണിക്കുന്ന സെല്ലിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ ഏതാണ് കുറച്ച് കാര്യങ്ങൾ ശരിയായി കാണും നമ്മൾ ഇതിനകം കണ്ട ക്ലൌഡ് സർവീസ് ദാതാവിനുള്ള SLA അതിനാൽ വാണിജ്യ ക്ളൌഡ്ന്റെ കാര്യത്തിൽ നമ്മൾ ഇത് എടുത്തുകാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില വശങ്ങൾ ബാധകമായ പ്രതിമാസ കാലയളവ് ശരിയാണ് അതായത് ഒരു കലണ്ടർ മാസത്തിൽ സർവീസ് ക്രെഡിറ്റ് ഓഡ് ദിവസങ്ങളാണ് നിങ്ങൾ ഒരു സർവീസ് വരിക്കാരനാണ് ഇത് ബാധകമായ സർവീസ് കാലയളവാണ് ബാധകമായ പ്രതിമാസ സർവീസ് ഫീസ് ശരിയാണ് സർവീസ് നിർദ്ദിഷ്ട നിബന്ധനകളിലെ സർവീസ് നമ്മൾ കണ്ടതുപോലെയുള്ള പ്രവർത്തനരഹിതമായ ആശയം എറർ കോഡ് എന്നാൽ പ്രവർത്തനം പരാജയപ്പെട്ടുവെന്നതിന്റെ സൂചനയാണ് http സ്റ്റാറ്റസ് കോഡ് 5xx അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഒരു എറർ കോഡ് ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം സർവീസ്ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാജയപ്പെട്ടുവെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ് Http അല്ലെങ്കിൽ https നായുള്ള പ്രോട്ടോക്കോൾ പോലുള്ള ഒരു ദ്വിദിശ നെറ്റ്വർക്ക് ട്രാഫിക് സർവീസ് റിസോഴ്സ് വിതരണം ചെയ്യുന്നതിന് ഇത് സമ്മതിക്കുന്നു എറർ കോഡ് കണ്ടതുപോലുള്ള സക്സസ് കോഡ് എന്നിവയ്ക്കായി ഉപയോഗിച്ച കമ്പ്യൂട്ട് ഉറവിടങ്ങളിലേക്ക് ക്ലൌഡ് സർവീസ് റഫററുകൾ പവർ നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി എന്നിവയുള്ള പൊതു ഉറവിടങ്ങൾ പങ്കിടുന്ന സെർവറുകളുടെ ഒരു ശേഖരമാണ് ഫോൾട്ട് ഡൊമെയ്ൻ ടെനന്റ് ഒന്നോ അതിലധികമോ റോളുകളെ പ്രതിനിധീകരിക്കുക അത് ഒരൊറ്റ പാക്കേജിൽ വിന്യസിച്ച ഒന്നോ അതിലധികമോ റോൾ ഉദാഹരണങ്ങളാണ് ഇത് നമ്മൾ കണ്ടത് ഒരു വർക്കർ റോൾ ആകാം അത് ഒരു വെബ് റോൾ തരത്തിലുള്ള കാര്യമാണ് അപ്ഡേറ്റ് ഡൊമെയ്ൻ ഈ സാഹചര്യത്തിൽ ഒരു കൂട്ടം മൈക്രോസോഫ്റ്റ് അസുർ പ്ലാറ്റ്ഫോം അപ്ഡേറ്റ് ഒരേസമയം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കറിയാവുന്ന വിർച്വൽ മെഷീൻ വിനെറ്റ് ഇത് ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കാണ് മാത്രമല്ല ഇത് വെബ് റോൾ വർക്കർ റോൾ എന്നിവയാണെന്നും അറിയപ്പെടുന്നു എസ്എൽഎ കണക്കുകൂട്ടലുകൾക്കായി സർവീസ് നിലയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന ചില അധിക നിർവചനങ്ങൾ ഇവയാണ് നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഇവിടെ ഉദാഹരണത്തിൽ ആ നിർവചനങ്ങൾ ഉപയോഗിച്ച് ക്ലൌഡ് സർവീസ് പ്രതിമാസ സമയ കണക്കുകൂട്ടലും സർവീസ് നിലവാരവും നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രതിമാസ ലഭ്യമായ മിനിറ്റുകൾ എല്ലാ ഇന്റർഫേസിംഗ് റോളുകൾക്കുമുള്ള ബില്ലിംഗ് കാലയളവിൽ ശേഖരിച്ച മൊത്തം മിനിറ്റുകളാണെന്നും 2 അല്ലെങ്കിൽ സമാനമായ അപ്ഡേറ്റ് ഡൊമെയ്നിൽ വിന്യസിച്ചിരിക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എത്ര സമയവും ഉയർന്ന സമയ ശതമാനവുമാണ് ലഭ്യമായ പരമാവധി മിനിറ്റ് ലഭ്യമായ പരമാവധി മിനിറ്റുകളിൽ മൈനസ് ഡൌൺ സമയം നമ്മൾ ഇവിടെത്തന്നെ കണക്കാക്കി അതാണ് കാര്യം നമ്മൾ ശരിയായി കണ്ടതുപോലെ സർവീസ് സ്ക്രിപ്റ്റ് ക്രെഡിറ്റ് നിയമങ്ങളുണ്ടാകാം ഇതിൽ 99 95 ശതമാനം നമ്മൾ ഉപയോഗിച്ച അതേ തരത്തിലുള്ള മൂല്യങ്ങളാണ് അതുപോലെ ഇത് കണക്കുകൂട്ടലിനും സർവീസ് ക്ലൌഡ് സർവീസ് വികസിപ്പിക്കുന്നതിനുമാണ് അതുപോലെ തന്നെ വിഎംഎസിനായി നമ്മൾക്ക് അവകാശമുണ്ട് അതിനാൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഎംഎസും വെർച്വൽ മെഷീനുകളും സമാനമായി അനുവദിച്ചിരിക്കുന്നു ലഭ്യമായ പരമാവധി മിനിറ്റ് മൊത്തം ശേഖരിച്ച സമയം ബില്ലിംഗ് കാലയളവാണ് ഡൌൺ സമയവും സമാനമായി നമുക്ക് കണക്കാക്കാം ഒരേ തരത്തിലുള്ള നിരവധി സർവീസ് ക്രെഡിറ്റുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കാം അതിനാൽ ഇത് ഒരു വ്യത്യസ്ത തരം ലെവൽ ആകാം അത് ഒരു IaaS ലെവലിൽ ആകാം അത് ഏത് SaaS ലേബലിലും ഒരു PaaS ലെവലുകൾ ആകാം സ്റ്റോറേജ് പ്രവർത്തനരഹിതമായ സമയമോ ആക്സസ് ശേഷി പ്രശ്നമോ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സംഭരണ നിലയായിരിക്കാൻ കഴിയും ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ശരിയായി പാലിക്കേണ്ട മികച്ച രീതികളും നിയമങ്ങളും എന്തൊക്കെയാണ് അതിനാൽ പിന്തുടരുന്ന മികച്ച ചില സമ്പ്രദായങ്ങൾ ആ വഴി നമുക്ക് നോക്കാം ക്ലൌഡ് സ്റ്റാൻഡേർഡ് കസ്റ്റം കൌൺസിൽ റൈറ്റ് ക്ലൌഡ് ഉപഭോക്താവിന് 7 ഘട്ടങ്ങൾ നൽകുന്നു അവർ എസ്എൽഎയെ വിലയിരുത്തുമ്പോൾ അവർ സ്വീകരിക്കേണ്ട നടപടികളാണ് ഏപ്രിൽ 2012 ലെ അവരുടെ പ്രമാണത്തിൽ നൽകിയിരിക്കുന്നത് ക്ലൌഡ് ആക്ടർസിനെ തിരിച്ചറിയുക എൻഎസ്ടി ആർക്കിടെക്ചർ അനുസരിച്ച് ആക്ടർ ആരാണ് അതിനാൽ ഇവരാണ് ആക്ടർ ഉപഭോക്താവ് നിർമ്മാതാവ് അല്ലെങ്കിൽ ദാതാവ് കാരിയർ ബ്രോക്കർ ഓഡിറ്റർ അതിനാൽ എൻഎസ്ടി വരെ ഉള്ള 5 ആക്ടർ ഇവരാണ് നമ്മൾ ബിസിനസ്സ് ലെവൽ നയങ്ങൾ ശരിയായി വിലയിരുത്തേണ്ടതുണ്ട് ഡാറ്റാ പോളിസികൾ എന്തായിരിക്കുമെന്നത് പ്രധാനമാണ് ഈ അധിക ഉപയോഗത്തിന് കീഴിൽ വരാത്ത പേയ്മെന്റ് പെനാൽറ്റി സബ് കരാർ സർവീസ് ലൈസൻസ് സോഫ്റ്റ്വെയർ വ്യവസായ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ ഇവയുടെ വിവിധ വശങ്ങൾ എന്നിവയാണ് ലളിതമായ എസ്എൽഎയെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാണ് ഡാറ്റാ നയം എന്തായിരിക്കണം എന്നത് എങ്ങനെയാണ് പരിരക്ഷിക്കപ്പെടാത്തത് എങ്ങനെ പരിരക്ഷിക്കപ്പെടില്ല സർവീസിന്റെ ഒരു ഉപ കരാർ ഉണ്ടെങ്കിൽ ആ നയങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ ലൈസൻസ് സോഫ്റ്റ്വെയർ ലൈസൻസിംഗ് സംവിധാനങ്ങളും മറ്റും ഉപയോഗിക്കുന്നു ശരിയാണ് കാരണം ഇവ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ മിക്ക കേസുകളും നമ്മൾ വ്യത്യസ്ത ലൈസൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാകാം കൂടാതെ ലൈസൻസിംഗ് ചെലവ് മുതലായവ ആ ലൈസൻസിംഗ് കാലയളവ് മാത്രമല്ല മറ്റ് കാര്യങ്ങളും പ്രവർത്തിക്കുന്നു SaaS PaaS അല്ലെങ്കിൽ IaaS ഏത് ലെവൽ ഓപ്പറേഷനുകളാണ് നമ്മൾ നോക്കുന്നതെന്ന് മനസിലാക്കേണ്ടതുണ്ട് കാരണം വ്യത്യസ്ത തരം കാര്യങ്ങൾ വ്യത്യസ്ത തരം സർവീസ് വ്യത്യസ്ത തരം ആവശ്യകതകളുണ്ട് ചില സാഹചര്യങ്ങളിൽ SaaS ഒരുപക്ഷേ നിയന്ത്രിക്കാനോ അളക്കാനോ വളരെ എളുപ്പമാണ് എന്നാൽ ഇത്തരത്തിലുള്ള സർവീസ് ഒന്നിലധികം ഉണ്ടോ എന്ന് നമ്മൾ ഏതുതരം സർവീസ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കേണ്ടതുണ്ട് അതിനാൽ SaaS PaaS IaaS എന്തിനെക്കുറിച്ചാണെന്നും ഏത് തരം ക്ലൌഡാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും ഒരു പൊതു സ്വകാര്യമോ ഹൈബ്രിഡോ ആണോ എന്ന് മനസിലാക്കേണ്ടതുണ്ട് ഒരു എസ്എൽഎയിലെ നിബന്ധനകളും വ്യവസ്ഥയും കൺട്രോൾ വേരിയബിളുകളുടെ സങ്കീർണ്ണതയെ ആശ്രയിച്ചിരിക്കുന്നു അത് ദാതാവ് ഉപഭോക്താവിനോ സർവീസ് ഉപഭോക്താക്കൾക്കോ നൽകുന്നു ഇപ്പോൾ ഉപഭോക്താവ് ലഭ്യത മുതലായവ കണക്കാക്കേണ്ടതുണ്ട് അതിനായി നിയന്ത്രിത നിയന്ത്രണ വേരിയബിളുകൾ നൽകുന്നത് ഞാൻ പറയുന്നതുപോലെയാണ് ഇത് എനിക്ക് സിപിയു അപ്പ് സമയം മുതലായവ നൽകുന്നു അല്ലെങ്കിൽ ഡിസ്ക് പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഉപയോഗ സമയമോ കഠിനമോ ആണ് അതിനാൽ നൽകിയിരിക്കുന്ന വ്യത്യസ്ത നിയന്ത്രണ പാരാമീറ്ററുകൾ ഇവയാണ് ഇപ്പോൾ ഈ പാരാമീറ്ററിന്റെ കൂടുതൽ സങ്കീർണ്ണത നിങ്ങൾ ഏത് തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഒരു IaaS സ്പേസ് അല്ലെങ്കിൽ SaaS അല്ലെങ്കിൽ ഇത് ഒരു ഹൈബ്രിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊതു അല്ലെങ്കിൽ സ്വകാര്യമാണോ അതിനാൽ മറ്റ് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മെട്രിക് പ്രകടന ലക്ഷ്യങ്ങൾ ശരിയായി കൈവരിക്കുന്നതിന് എന്ത് അളവുകൾ ഉപയോഗിക്കണം എന്ന് തിരിച്ചറിയുക എന്നതാണ് ലഭ്യത മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ എന്നിവ പോലുള്ള എസ്എൽഎയിലെ മെട്രിക് നാമം പോലെയാണ് ലഭ്യത പ്രതികരണ അളവുകളിൽ ലഭ്യത ഉദാഹരണങ്ങൾ ഈ ഡാറ്റ ശേഖരിക്കുന്നതിന്റെ ആവൃത്തിയും പ്രധാനമാണോ എന്നതിന് മറ്റ് തടസ്സങ്ങളുണ്ടാകാം അടുത്ത വർഷം സുരക്ഷ പോലുള്ള ക്ലൌഡിനായുള്ള പ്രധാന സുരക്ഷാ പാരാമീറ്ററുകൾ പരിഗണിക്കുക അസറ്റ് സെൻസിറ്റിവിറ്റി ഐ എ പോലുള്ള നിയമപരമായ റെഗുലേറ്ററി ആവശ്യകതകൾ എന്നിവ ഈ ഡാറ്റകൾ ഈ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോ വസിക്കുമെന്ന് ഞാൻ പറഞ്ഞേക്കാം ക്ലൌഡ് ദാതാവിന്റെ സുരക്ഷാ കഴിവുകൾ അത് നൽകാനുള്ള ക്ലൌഡ് ദാതാവിന്റെ കഴിവ് എന്താണ് സർവീസ് മാനേജുമെന്റ് ആവശ്യകത തിരിച്ചറിയുന്നതിന് നമ്മൾക്ക് സർവീസ് മാനേജുമെന്റ് ആവശ്യകതയുണ്ട് അതിനാൽ എന്താണ് നിരീക്ഷിക്കുകയും റിപ്പോർട്ടുചെയ്യുകയും ചെയ്യേണ്ടത് ലോഡ് പ്രകടന ആപ്ലിക്കേഷൻ പ്രകടനം അല്ലെങ്കിൽ എന്താണ് ശരിയായി അളക്കേണ്ടത് നിങ്ങൾ ബിൽ മീറ്ററായിരിക്കണം വേഗത പരിശോധന ഡിമാൻഡ് ഫ്ലെക്സിബിലിറ്റി റിസോഴ്സ് മാറ്റിയത് എന്നിവ എങ്ങനെ വേഗത്തിൽ കൈകാര്യം ചെയ്യണം പ്രൊവിഷനിംഗ് എങ്ങനെയുണ്ട് എന്താണ് നിരീക്ഷിക്കുകയും റിപ്പോർട്ടുചെയ്യുകയും ചെയ്യേണ്ടത് മീറ്റർ തരം കാര്യങ്ങൾ എന്നിവ പരിശോധിക്കേണ്ടതുണ്ട് പരാജയത്തിനായി ശരിയായ രീതിയിൽ തയ്യാറാകുകയും നിയന്ത്രിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാന എക്സിറ്റ് ഉണ്ട് ഉദാഹരണത്തിന് സർവീസ് ക്രെഡിറ്റുകൾ ബാധ്യതാ പരിമിതി എന്നിവ പോലെ എന്ത് പ്രതിവിധി നൽകണമെന്ന് നിർണ്ണയിച്ചു അതിനാൽ എത്ര സർവീസ് ക്രെഡിറ്റുകൾ നൽകണം ദാതാവിന്റെ കാഴ്ചപ്പാടിൽ ദാതാവിന്റെ എന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ് കൂടാതെ ഉപയോക്താവ് ഒപ്പിടുന്നത് ആവശ്യമുള്ളപ്പോൾ ദുരന്ത വീണ്ടെടുക്കൽ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കും ദുരന്ത വീണ്ടെടുക്കൽ പദ്ധതി ആവശ്യമുള്ളപ്പോൾ എങ്ങനെ പ്രവർത്തിക്കും കൂടാതെ എക്സിറ്റ് ക്ലോസ് ഓരോ ക്ലൌഡ് എസ്എൽഎയുടെയും അവകാശമായിരിക്കണം ഒന്നുകിൽ ഉപഭോക്താവോ ദാതാവോ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു SLA അവിടെ എന്താണുള്ളത് എന്നത് ഒരു കരാറാണ് അതിനാൽ എക്സിറ്റ് ക്ലോസ് എന്തായിരിക്കണം ഉപഭോക്താവ് പുറത്തുകടക്കാൻ ഒരു ഘട്ടത്തിൽ കരുതുക അല്ലെങ്കിൽ എനിക്ക് അത് നൽകാൻ കഴിയില്ലെന്ന് ദാതാക്കൾ പറയുന്നു അതിനാൽ അത് കാര്യത്തിലായിരിക്കണം ഇത് അത്യാവശ്യമായ ചില മികച്ച സമ്പ്രദായങ്ങളാണെന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ SLA മുതലായവ രൂപപ്പെടുത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില മികച്ച സമ്പ്രദായങ്ങൾ ക്ലൌഡ് ആക്ടർസ്നെ തിരിച്ചറിയുക ബിസിനസ്സ് ലെവൽ നയങ്ങൾ വിലയിരുത്തുക ഇത്തരത്തിലുള്ള സർവീസ് മനസിലാക്കുക വ്യത്യസ്ത മാട്രിക്സുകളുടെ സുരക്ഷാ ശേഷി എന്തൊക്കെയാണ് ഉപഭോക്താവിന്റെ സുരക്ഷാ ആവശ്യകത ദാതാവിന്റെ കഴിവ് എന്നിവ സർവീസ് മാനേജുമെന്റ് ആവശ്യകതകൾ പരാജയം എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ പരാജയത്തിനുള്ള പരിഹാരങ്ങൾ എന്തായിരിക്കണം നമ്മൾ ഇത് പരീക്ഷിച്ചത് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത SLA യുടെ ഒരു വിപുലീകരണം അയയ്ക്കുന്നതാണ് കാര്യങ്ങൾക്ക് വ്യത്യസ്ത വശങ്ങളുണ്ടെന്ന് നൽകാൻ നമ്മൾ ശ്രമിക്കുന്നതും ലളിതമായ എസ്എൽഎയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമ്മൾ കണ്ട ഈ കാര്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ വളരെ ലളിതമാണെങ്കിലും ഈ തരത്തിലുള്ള എസ്എൽഎ എങ്ങനെ കണക്കാക്കാം എന്നാൽ ഈ രീതിയിലുള്ള സമീപനത്തെ നിങ്ങൾക്ക് എങ്ങനെ വിശദീകരിക്കാമെന്ന ഒരു ആശയം ഇത് നൽകുന്നു അതിനാൽ ഈ SLA ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിപ്പിക്കാം നന്ദി